സൂചക പദങ്ങൾ ട്രാൻസിഷൻ സ്റ്റേറ്റ് സോളിനോയ്ഡ് സ്റ്റേറ്റ് ലോജിക് ലിമിറ്റ് സ്വിച്ച് സ്റ്റേറ്റ് മെഷീൻ പ്രോസസ് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ആൻഡ് കൺട്രോൾ കോഴ്സിന്റെ ഇരുപത്തി ഒന്നാമത്തെ പാഠഭാഗത്തിലേക്ക് സ്വാഗതം ഈ പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സീക്വൻസ് കൺട്രോളിന്റെ ഘടനാപരമായ രൂപകല്പന സമീപനം ആണ് ഇതുവരെ പ്രധാനമായും കണ്ടത് പ്രോഗ്രാമിംഗ് ഘടനകൾ ആണ് നമ്മൾ ചെറിയ പ്രോഗ്രാം ഭാഗങ്ങൾ അതായത് ടൈമർ കൌണ്ടർ എന്നിവ കണ്ടു ഈ പാഠഭാഗത്തിൽ ആണ് നമ്മൾ ആദ്യമായി കാണാൻ പോകുന്നത് എങ്ങനെ ഒരു പ്രായോഗികമായ പ്രശ്നമുണ്ടായാൽ ഏതൊക്കെ നടപടികൾ സ്വീകരിച്ച് അവസാനം ഒരു RLL പ്രോഗ്രാമിൽ എത്തിച്ചേരണമെന്ന് ഇവിടെ നമ്മൾ ക്രമാനുഗതമായ സമീപനമായിരിക്കും പിന്തുടരാൻ പോകുന്നത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ ഇൻഡസ്ട്രിയൽ കണ്ട്രോൾ ഉപയോഗങ്ങളിൽ പ്രോഗ്രാം സംബന്ധമായ തെറ്റ് ഉണ്ടായാൽ നമ്മൾക്ക് വളരെ വലിയ വില കൊടുക്കേണ്ടി വരും അത് ചിലപ്പോൾ പണത്തിൻറെ അല്ലെങ്കിൽ മനുഷ്യ ജീവൻറെ അടിസ്ഥാനത്തിൽ ആയിരിക്കും അതിന് എപ്പോഴും ക്രമാനുഗതമായ രൂപകൽപ്പന സമീപനം ആയിരിക്കും നല്ലത് ഒരു പ്രശ്നം പലതരത്തിൽ വേർതിരിച്ച് അവസാനം നമ്മൾക്ക് ഒരു പരിഹാരത്തിൽ എത്തിച്ചേരാം നമ്മൾക്ക് പഠന പരമായ ഉദ്ദേശങ്ങൾ നോക്കാം ആദ്യത്തേത് സ്റ്റേറ്റ് മെഷീൻ വെച്ച് ലളിതമായ സീക്വൻസ് കണ്ട്രോൾ ഉപയോഗങ്ങളുടെ മാതൃക ഉണ്ടാക്കുക എന്നതാണ് സ്റ്റേറ്റ് മെഷീൻ ഒരു ഔപചാരികമായ മാർഗമാണ് കാരണം അത് ഒരു സ്പഷ്ടമായ മാറ്റമില്ലാത്ത മാർഗമാണ് അതിൽ വൈരുധ്യങ്ങൾ ഇല്ല ഒപ്പം മനസ്സിലാക്കാനും വികസിപ്പിക്കാനും എളുപ്പവുമാണ് അതിനുശേഷം ഈ ഔപചാരികമായ മാതൃകകളിൽ നിന്നും RLL പ്രോഗ്രാമുകൾ വികസിപ്പിക്കണം ഇതിന് കുറച്ച് നവീനമായ പ്രോഗ്രാം ഘടനകൾ ലഭ്യമാണ് അതിലൊന്ന് SFC അല്ലെങ്കിൽ സ്വീകുവെന്ഷിയൽ ഫംഗ്ഷൻ ചാർട്ട് ആണ് അതിൻറെ കുറച്ച് പ്രയോജനങ്ങളും നമ്മൾ കാണും അതിനാൽ ഇതൊക്കെയാണ് ഈ പാഠഭാഗത്തിന് റെ ഉദ്ദേശങ്ങൾ ഇനി സീക്വൻസ് കണ്ട്രോൾ രൂപകൽപനയുടെ വിശാലമായ നടപടിക്രമങ്ങൾ എന്താണെന്ന് നോക്കാം ആദ്യത്തേത് സിസ്റ്റം പെരുമാറ്റം എങ്ങനെയാണെന്ന് പഠിക്കുകയാണ് ഇത് വളരെ പ്രധാനമാണ് സാധാരണയായി പ്രോഗ്രാമിൽ തെറ്റുകൾ വരാൻ കാരണം പ്രോഗ്രാമർ സിസ്റ്റം നല്ലപോലെ മനസ്സിലാകാത്ത തിനാൽ ആണ് ഇത് വളരെ സുപ്രധാനമായ പടിയാണ് ആദ്യം സിസ്റ്റ് ത്തിൻറെ ഇൻപുട്ട് തിരിച്ചറിയണം ഇൻപുട്ട് സെൻസറിൽ നിന്ന് വരാം അല്ലെങ്കിൽ ഓപ്പറേറ്റർ സമ്പർക്കമുഖത്തിൽ നിന്നാകാം ഇതിനെ MMI അല്ലെങ്കിൽ മാൻ മെഷീൻ ഇൻറർഫേസ് എന്ന് പറയും അതായത് ഓപ്പറേറ്റർ ഒരു പുഷ് ബട്ടൺ അമർത്തിയാൽ അത് MMI ഇൻപുട്ട് ആണ് അതേസമയം ഒരു ലിമിറ്റ് സ്വിച്ച് ആണെങ്കിൽ അത് സെൻസർ ഇൻപുട്ട് ആണ് സമാനമായി ഔട്ട്പുട്ടും തിരിച്ചറിയണം ചിലപ്പോൾ അത് മോട്ടർ ഓൺ ആകുന്നതാവാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൂചകങ്ങൾ അല്ലെങ്കിൽ ഒരു വൈദ്യുതദീപം ആവാം ഇത് MMI അല്ലെങ്കിൽ മാൻ മെഷീൻ ഇൻറർഫേസ് ചെന്ന് എത്തും അതുകൊണ്ട് ആദ്യം നമ്മൾ ഇതെല്ലാം തിരിച്ചറിയണം എന്നിട്ട് പല ഓപ്പറേറ്റർ മോഡിലെ തുടർപ്രവർത്തനങ്ങളുടെയും സംഭവങ്ങളുടെയും ക്രമം നമ്മൾ പഠിക്കണം ഇതാണ് മനസ്സിലാക്കാനുള്ള പ്രധാന കർത്തവ്യം എപ്പോൾ എങ്ങനെ എത്ര ഇടവേളകളിൽ സംഭവിക്കുമെന്നും പഠിക്കണം ഒരു കാര്യം എപ്പോഴും ഓർക്കണം സിസ്റ്റം സാധാരണ നിലയിൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമല്ല എന്തെങ്കിലും തകരാർ ഉണ്ടാകുന്ന അവസ്ഥയിലും ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ പ്രോഗ്രാം വികസിപ്പിക്കണം അല്ലെങ്കിൽ തകരാർ ഉണ്ടാകുന്ന വേളയിൽ സിസ്റ്റം പ്രവർത്തനം ഉദ്ദേശിച്ചതുപോലെ ആയിരിക്കില്ല ഉദാഹരണത്തിന് ഏതെങ്കിലും സെൻസർ തകരാർ ആയാൽ യാന്ത്രികമായ പ്രവർത്തനം കൂടാതെ യന്ത്രങ്ങൾകൊണ്ടല്ലാതെ ഉള്ള പ്രവർത്തനത്തിനു വേണ്ടിയുള്ള ആവശ്യങ്ങൾ കൂടേ നമ്മൾ കണക്കിലെടുക്കണം യന്ത്രങ്ങൾകൊണ്ടല്ലാതെ ഉള്ള പ്രവർത്തനം പ്രധാനമാണ് കാരണം യാന്ത്രികമായ ഉപകരണം തകരാർ ആയാൽ നമ്മൾ ഇതിനെ ആശ്രയിക്കേണ്ടി വരും യന്ത്രങ്ങൾകൊണ്ടല്ലാതെ ഉള്ള ഉപകരണം പ്രവർത്തന തലത്തിൽ തന്നെ ആയിരിക്കും പക്ഷേ യാന്ത്രികമായ നിയന്ത്രണം കുറച്ചു ദൂരെ യായിരിക്കും അത് ഒരു കൺട്രോൾ റൂമിൽ ആയിരിക്കും യന്ത്രങ്ങൾകൊണ്ടല്ലാതെ ഉള്ള ഉപകരണം പ്രവർത്തന തലത്തിൽ തന്നെ ആയിരിക്കും അതിനാൽ ഇതിന്റെ സാധ്യത കൂടി പരിശോധിക്കപ്പെടണം കൂടുതൽ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ സിസ്റ്റത്തിൽ അടങ്ങിയിട്ടില്ലാത്ത സെൻസർ കൂട്ടി ചേർക്കേണ്ടി വരും കൃത്യമായ പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള മാനദണ്ഡങ്ങൾ സൂചകങ്ങൾ അലാറം പ്രവർത്തന കാര്യക്ഷമത അല്ലെങ്കിൽ സുരക്ഷിതത്വം ആണ് ഒരു കാര്യം എപ്പോഴും ഓർക്കണം ഉപഭോക്താവ് എപ്പോഴും അവരുടെ ആവശ്യങ്ങൾ പ്രകടിപ്പിക്കാൻ സാധിക്കില്ല ഒരു നല്ല ഓട്ടോമേഷൻ എഞ്ചിനീയർ തൻറെ പ്രവർത്തനപരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ മികച്ച സിസ്റ്റം വികസിപ്പിക്കണം സാധാരണ ഇതേപോലെ ഉള്ള ആവശ്യങ്ങൾ പ്രകടിപ്പിക്കുന്നത് ഭാഷാവിഷയകമായ വിവരണങ്ങളിൽ നിന്നാണ് അതായത് നിങ്ങൾ ഉപഭോക്താവിനോട് അല്ലെങ്കിൽ എഞ്ചിനീയറോട് സംസാരിച്ച് ആവശ്യങ്ങൾ മനസ്സിലാകും പക്ഷേ ഇത് അപകടകരമായ ഒരു പദ്ധതി ആണ് അതുകൊണ്ട് നമ്മൾ ഭാഷാവിഷയകമായ വിവരണങ്ങളിൽ നിന്ന് ഔപചാരികമായ പദ്ധതി മാതൃകയിൽ പരിവർത്തനം ചെയ്യും ഇപ്പോൾ ഭാഷാവിഷയകമായ വിവരണങ്ങളിൽ ഉള്ള അവ്യക്തത കൂടുതൽ രൂക്ഷമാകും അതുകൊണ്ട് ഔപചാരികമായ പദ്ധതി മാതൃകയിൽ പരിവർത്തനം ചെയ്യപ്പെടുമ്പോൾ ഇടയിലുള്ള കുറച്ചു മാതൃകകൾ കൂടി ഉപയോഗിക്കേണ്ടിവരും ഉദാഹരണത്തിന് ഫ്ലോ ചാർട്ട് അവസാനം ഇതിനെ ഔപചാരികമായ ഗണിതശാസ്ത്രപരമായ ഘടനയിൽ പരിവർത്തനം ചെയ്യണം ഉദാഹരണത്തിന് ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ മുഴുവൻ യന്ത്രങ്ങൾകൊണ്ടല്ലാതെ ആയിരുന്നു ഇനി സീക്വൻസ് കൺട്രോൾ ലോജിക്കിന്റെ ഔപചാരികമായ മാതൃക രൂപകൽപ്പന ചെയ്യണം അവസാനം RLL പ്രോഗ്രാം ഉപയോഗിച്ച് കൺട്രോൾ ലോജിക് നടപ്പിലാക്കണം പ്രത്യേകിച്ച് സ്റ്റെപ്പ് B സ്റ്റെപ്പ് c കഴിഞ്ഞതിനു ശേഷം സ്റ്റെപ്പ് D ഓട്ടോമേറ്റഡ് ആക്കാൻ സാധിക്കും വലിയ പ്രോഗ്രാമുകളിൽ ഓട്ടോമേറ്റഡ് ആക്കണം കാരണം നിങ്ങളുടെ വിവരണം ശരിയാണെങ്കിൽ ഇത് തകരാർ ഇല്ലാതാക്കാൻ ശ്രമിക്കും ഇനി മുന്നേ കണ്ട സ്റ്റാമ്പിങ് പ്രക്രിയയുടെ ഉദാഹരണത്തിൽ ഒന്ന് തിരിച്ചു പോകാം ഇത് നേരത്തെ കണ്ട സ്റ്റാമ്പിങ്പ്രക്രിയ ആണ് ഇവിടെ കുറച്ചു കൂട്ടിച്ചേർക്കലുകൾ നടത്തിയിട്ടുണ്ട് അതായത് സിസ്റ്റം പൂർണ്ണമാക്കാൻ കുറച്ചു ഭാഗങ്ങൾ ചേർത്തിട്ടുണ്ട് അടിസ്ഥാന തത്വം മുൻപ് പറഞ്ഞത് പോലെ തന്നെയാണ് അതായത് ഒരു ഹൈഡ്രോളിക് അടിസ്ഥാനമാക്കിയുള്ള പിസ്റ്റൺ ഒപ്പം 2 സോളിനോയ്ഡ് ഉണ്ട് ഹൈഡ്രോളിക് അടിസ്ഥാനമാക്കിയുള്ള പിസ്റ്റൺ മുകളിലോട്ടും താഴോട്ടും പോയി സ്റ്റാമ്പിങ് ഉണ്ടാക്കും ഇപ്പോൾ ഭാഷാപരമായ വിവരണം ഉണ്ടാക്കിയാൽ ഏതാണ്ട് ഇതേപോലെ ഉണ്ടാവും സ്റ്റെപ്പ് A ഇൽ ഒരു ഓട്ടോ പുഷ് ബട്ടൺ അമർത്തും അത് ഒരു ഓപ്പറേറ്റർ ഇൻപുട്ട് ആണ് ഇത് പവർ ഒപ്പം വൈദ്യുതദീപം ഓൺ ആക്കും ഒന്നിൽ കൂടുതൽ സ്വിച്ച് ആകാം പക്ഷേ ഇവിടെ പരിഗണിക്കുന്നത് ഒരു സ്വിച്ച് മാത്രമാണ് അപ്പോൾ ഓട്ടോ പുഷ് ബട്ടൺ അമർത്തുന്ന വേളയിൽ തന്നെ പവർ ഒപ്പം വൈദ്യുതദീപം ഓൺ ആകും സ്റ്റാമ്പ് ചെയ്യപ്പെടേണ്ട ഭാഗം കണ്ടെത്തണം അതിന് അവിടെ ഒരു സെൻസർ വേണം അങ്ങനെ ഒരു ഭാഗം കണ്ടെത്തിയാൽ പ്രസ് റാം താഴോട്ട് നീങ്ങും കീഴ് ഭാഗത്തെ ലിമിറ്റ് സ്വിച്ച് എത്തിയാൽ ഉടനടി ഇത് നിൽക്കും അതിനാൽ അവിടെയും ഒരു സെൻസർ വേണം ആക്ചുവേറ്റർ ഉപയോഗിച്ചാണ് പ്രസ് റാം താഴോട്ട് നീങ്ങുന്നത് അതിനുശേഷം പ്രസ് റാം തിരിച്ച് മുകൾ ഭാഗത്തെ ലിമിറ്റ് സ്വിച്ച് എത്തിയിട്ട് നിൽക്കും അതായത് സ്റ്റാമ്പിങ് നടത്തിയിട്ട് നിൽക്കും നേരെമറിച്ച് എന്തെങ്കിലും കാരണം മൂലം ഓപ്പറേറ്റർ പ്രവർത്തനം അവസാനിപ്പിക്കണം എന്ന് തോന്നിയാൽ ഒരു സ്റ്റോപ്പ് പുഷ് ബട്ടൺ അമർത്തും ഇത് എപ്പോഴും പ്രസ് റാം താഴോട്ടു പോകുന്ന സമയത്ത് ആയിരിക്കും മുകളിലോട്ട് പോകുന്ന സമയം ആണെങ്കിൽ ഒരു സ്വാധീനവും ചെലുത്താൻ സാധിക്കില്ല സ്റ്റോപ്പ് പുഷ് ബട്ടൺ അമർത്തിയാൽ എന്തോ അസാധാരണമായ അവസ്ഥ ഉണ്ടായി എന്നാണ് അതിനാൽ റീസെറ്റ് പുഷ് ബട്ടൺ അമർത്തിയതിനു ശേഷമേ ഓട്ടോ പുഷ് ബട്ടൺ അമർത്തി അടുത്ത ആവൃത്തി ആരംഭിക്കുക സാധിക്കുകയുള്ളൂ അതിനാൽ സ്റ്റോപ്പ് അമർത്തിയതിനു ശേഷം റീസെറ്റ് അമർത്തുക അത്യാഹിത ഘട്ടം ഒഴിഞ്ഞു പോയി ഇനി യാന്ത്രികമായ ക്രിയ ആരംഭിക്കാം എന്നുള്ള ഒരു സന്ദേശമാണ് അവസാനം പ്രസ് റാം തിരിച്ച് മുകളിൽ പോയതിനു ശേഷം അവിടെ അതു കാത്തിരിക്കും അടുത്ത ഭാഗം കണ്ടെത്തിയാൽ പ്രസ് റാം താഴോട്ട് നീങ്ങാൻ ആരംഭിക്കും സിസ്റ്റം പെരുമാറ്റത്തിന്റെ ഭാഷാപരമായ നിർവചനം ഇതാണ് ഇനി ഇതിനെ സ്പഷ്ടമായ ഗണിതശാസ്ത്ര വിവരണത്തിലോട്ടു പരിവർത്തനം ചെയ്യണം അപ്പോൾ ആദ്യത്തെ പ്രക്രിയ ഇതിൻറെ ഇൻപുട്ട് ഒപ്പം ഔട്ട്പുട്ട് കിട്ടുക എന്നതാണ് അതിനാൽ ഇതൊക്കെയാണ് ഇൻപുട്ട് ഒപ്പം ഔട്ട്പുട്ട് സെൻസർ ആണ് ഇൻപുട്ട് അത് രണ്ടുതരത്തിലുണ്ട് ഒന്ന് ഭാഗം കണ്ടെത്തിയാൽ രണ്ട് ഭാഗം എടുത്തു മാറ്റിയാൽ 3 തരത്തിലുള്ള പുഷ് ബട്ടൺ ഉണ്ട് ഓട്ടോ പുഷ് ബട്ടൺ സ്റ്റോപ്പ് പുഷ് ബട്ടൺ ഒപ്പം റീസെറ്റ് പുഷ് ബട്ടൺ ഇത് മൂന്നും ആണ് ഓപ്പറേറ്റർ ഇൻപുട്ട് ഇതോടൊപ്പം 2 ലിമിറ്റ് സ്വിച്ച് സെൻസർ ഉണ്ട് ബോട്ടം ലിമിറ്റ് സ്വിച്ച് ഒപ്പം ടോപ് ലിമിറ്റ് സ്വിച്ച് നാലു ഔട്ട്പുട്ട് ഉണ്ട് ഒരു അപ്പ് സോളിനോയ്ഡ് ഇത് പ്രസ് റാം മുകളിലോട്ട് നീക്കും ഡൌൺ സോളിനോയ്ഡ് ഇതിനെ താഴോട്ടു നീക്കും പിന്നെ ഒരു പവർ ലൈറ്റ് സ്വിച്ച് ഒപ്പം പാർട്ട് ഹോൾഡ് സ്വിച്ച് ഇത് സ്റ്റാമ്പ് ചെയ്യുമ്പോൾ ഭാഗങ്ങളെ പിടിച്ചുനിർത്തും അപ്പോൾ നാലു ഔട്ട്പുട്ട് ഉണ്ട് ഇനി നമ്മൾക്ക് സ്റ്റേറ്റ് മെഷീൻ വികസിപ്പിക്കണം അതിനാൽ ഈ ചിത്രം ഒന്ന് വ്യാഖ്യാനിക്കാം ഈ ചിത്രത്തിൽ കാണുന്ന ചതുരങ്ങൾ സ്റ്റേറ്റ് ആണ് നമ്മൾക്ക് സ്റ്റേറ്റ് മെഷീൻ പരിചിതമാണ് സ്റ്റേറ്റ് മെഷീൻ ഒരു രേഖാ രൂപം പോലെയാണ് ഇതിൽ കുറച്ച് സ്റ്റേറ്റ് ഉണ്ട് ഉദാഹരണത്തിന് ഇതാണ് ഒരു ട്രാൻസിഷൻ ഇതാണ് ഒരു സ്റ്റേറ്റ് സിസ്റ്റം ഒരു സ്റ്റേറ്റ് നിന്ന് മറ്റൊരു സ്റ്റേറ്റ് ട്രാൻസിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു ട്രാൻസിഷൻ നടത്താൻ നിസ്സാരമായ സമയം മാത്രമേ വേണ്ടി വരുന്നുള്ളൂ 2 ചതുരങ്ങൾ വന്നാൽ ഇതിൻറെ അർത്ഥം പ്രാഥമിക സ്റ്റേറ്റ് എന്നാണ് ആദ്യം ഓട്ടോ പുഷ് ബട്ടൺ അമർത്തിയാൽ ട്രാൻസിഷൻ A ആയിരിക്കും നടക്കുന്നത് ഇപ്പോൾ സിസ്റ്റം സ്റ്റേറ്റ് 1ഇൽ നിന്ന് 2ഇൽ പോകും ഇതിനെ കാട്ടിലും സങ്കീർണമായ അവസ്ഥകളുണ്ട് പക്ഷേ ഇത് ഒരു ലളിതമായ അവസ്ഥയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ട്രാൻസിഷൻ നടന്നാൽ സിസ്റ്റം സ്റ്റേറ്റ് 2ഇൽ എത്തും സ്റ്റേറ്റ് 2ഇൽ ട്രാൻസിഷൻ B നടന്നാൽ സ്റ്റേറ്റ് 3ഇൽ എത്തും ഇത് ഭാഗം കണ്ടെത്തിയാൽ ഉള്ള അവസ്ഥയാണ് പ്രവർത്തന തലത്തിൽ ഉള്ള സെന്സറിൽ നിന്ന് തരംഗങ്ങൾ വരുന്ന മുറയ്ക്ക് ട്രാൻസിഷൻ നടക്കും അങ്ങനെ സിസ്റ്റം ഒരു സ്റ്റേറ്റ് ഇൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റ് ഇൽ എത്തും നേരെമറിച്ച് പച്ചനിറത്തിലുള്ള ദീർഘ ചതുരങ്ങൾ സൂചിപ്പിക്കുന്നത് ഔട്ട്പുട്ട് ആണ് ഉദാഹരണത്തിന് സ്റ്റേറ്റ് 1ഇൽ ഔട്ട്പുട്ട് ഒന്നുമില്ല സ്റ്റേറ്റ് 2ഇൽ പവർ ഒപ്പം വൈദ്യുതദീപം ഓൺ ആണ് സ്റ്റേറ്റ് 3ഇൽ ഡൌൺ സോളിനോയ്ഡ് ഓൺ ആണ് ഇവിടെയാണ് സോളിനോയ്ഡ് താഴേയ്ക്ക് വരുന്നത് ഇവിടെ പ്രാഥമികമായ സ്റ്റേറ്റ് കാണാം ഇവിടെ പവർ ഒപ്പം വൈദ്യുതദീപം ഓൺ ആക്കുന്നത് കാണാം എന്നിട്ട് കാത്തിരിക്കും അടുത്ത ഭാഗത്തിൽ നിന്ന് തരംഗം വരാൻ അത് കഴിഞ്ഞു താഴെ വരും എന്നിട്ട് കുറച്ച് കാത്തിരിക്കും എന്നിട്ട് ഏത് തരംഗം ആണ് വരാൻ പോകുന്നതിനനുസരിച്ച് ഈ വഴിയിലോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ ഇത് പോകും സ്റ്റോപ്പ് പുഷ് ബട്ടൺ അമർത്തിയില്ലെങ്കിൽ ബോട്ടം ലിമിറ്റ് സ്വിച്ച് തരംഗം ആയിരിക്കും വരുന്നത് എന്നിട്ട് സ്റ്റെപ്പ് 4ഇൽ എത്തും അതേസമയം ബോട്ടം ലിമിറ്റ് സ്വിച്ച് അമർത്തിയാൽ ഈ സ്റ്റേറ്റ് ഇൽ എത്തിച്ചേരും ഇവിടെവെച്ച് പ്രവർത്തനം നിലയ്ക്കും അതേപോലെ പവർ ഓൺ ആകും വൈദ്യുതദീപം ഓഫ് ആകും അങ്ങനെയാണ് രേഖാ രൂപം വെച്ച് സ്പഷ്ടമായി സിസ്റ്റം പ്രവർത്തനം വിവരണം ചെയ്യാൻ കഴിയുന്നത് ഇതിനെ നമ്മൾ സ്റ്റേറ്റ് ട്രാൻസിഷൻ ഡയഗ്രാം എന്ന് പറയും വിവിധതരം ഔട്ട്പുട്ട് ഒരു ടേബിൾ മാതൃകയിൽ എഴുതുന്നു ഇതാണ് ഔട്ട്പുട്ട് ടേബിൾ എന്ന് അറിയപ്പെടുന്നത് ഔട്ട്പുട്ട് ടേബിൾ പറയുന്നു നാലുതരം ഔട്ട്പുട്ട് ഉണ്ട് പവർ ലൈറ്റ് പാർട്ട് ഹോൾഡ് അപ്പ് സോളിനോയ്ഡ് ഒപ്പം ഡൌൺ സോളിനോയ്ഡ് ഇവ കണ്ടാൽ ഇപ്പോഴത്തെ നില എന്താണെന്ന് വിലയിരുത്താൻ സാധിക്കും അതിനാൽ 6 സ്റ്റേറ്റ് ഒപ്പം 4 ഔട്ട്പുട്ട് ഉണ്ട് പവർ ലൈറ്റ് ഓൺ ആകുന്നത് സ്റ്റേറ്റ് 2 3 4 6 ഇൽ ആണ് പാർട്ട് ഹോൾഡ് ഓൺ ആകുന്നത് സ്റ്റേറ്റ് 3 ഒപ്പം 4ഇൽ ആണ് അപ്പ് സോളിനോയ്ഡ് 1 ആകുന്നത് സ്റ്റേറ്റ് 4ഇൽ ആണ് ഒപ്പം ഡൌൺ സോളിനോയ്ഡ് 1 ആകുന്നത് സ്റ്റേറ്റ് 3ഇൽ ആണ് ഇത് ചെയ്തു കഴിഞ്ഞതിനു ശേഷം വിവിധ സ്റ്റേറ്റ് ലോജിക് ഒപ്പം ട്രാൻസിഷൻ ലോജിക് നമ്മൾക്ക് കണക്കുകൂട്ടാം ആദ്യം ഒരു സ്റ്റേറ്റ്ഇൽ ഒരു സ്റ്റേറ്റ് ലോജിക് ഉണ്ടാവും അതിനനുസരിച്ച് ഔട്ട്പുട്ട് വരും കുറച്ചുസമയം കഴിഞ്ഞ് ട്രാൻസിഷൻ ലോജിക് അനുസരിച്ച് സിസ്റ്റം വേറൊരു സ്റ്റേറ്റ്ഇൽ എത്തും ഇവിടെ പുതിയ ഒരു സ്റ്റേറ്റ് ലോജിക് ആയിരിക്കും ഉണ്ടാകുന്നത് അനുസരിച്ച് പുതിയ ഔട്ട്പുട്ട് ഉണ്ടാവും അപ്പോൾ ഇത് നമ്മൾക്ക് ഒരു റിലേ ലാഡർ ലോജിക് പ്രോഗ്രാമിൽ ആവിഷ്കരിക്കണം അപ്പോൾ നമ്മൾക്ക് പ്രോഗ്രാമിനെ 3 തലത്തിൽ ചിട്ടപെടുത്താം റിലേ ലാഡർ ലോജിക് 3 ബ്ലോക്ക് ആയി തരംതിരിക്കാം ആദ്യത്തെ ബ്ലോക്കിൽ ഉള്ളത് ട്രാൻസിഷൻ ആണ് രണ്ടാമത്തേത് സ്റ്റേറ്റ് ബ്ലോക്ക് ഒപ്പം അവസാനത്തേത് ഔട്ട്പുട്ട് ബ്ലോക്ക് അപ്പോൾ ഈ 3 ബ്ലോക്ക് ഒരു ഉദാഹരണം വച്ച് വിവരിക്കും ആദ്യം ട്രാൻസിഷൻ ഘടന പരിശോധിക്കാം ഉദാഹരണത്തിന് ഇവിടെ ട്രാൻസിഷൻ A ലോജിക് തൃപ്തി പെടുമ്പോൾ സ്റ്റേറ്റ് 1ഇൽ നിന്ന് സ്റ്റേറ്റ് 2ഇൽ എത്തും നമ്മൾക്ക് ഒന്നു തിരിച്ചു പോകാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ട്രാൻസിഷൻ A സ്റ്റേറ്റ് 1ഇൽ നിന്ന് സ്റ്റേറ്റ് 2ഇൽ കൊണ്ടുപോകും ട്രാൻസിഷൻ B സ്റ്റേറ്റ് 2ഇൽ നിന്ന് സ്റ്റേറ്റ് 3ഇൽ കൊണ്ടുപോകും ട്രാൻസിഷൻ C ഒപ്പം B സമാന്തരം ആണ് അത് സ്റ്റേറ്റ് 3ഇൽ നിന്ന് 4 അല്ലെങ്കിൽ 5 ഇൽ കൊണ്ടുപോകും അതിനാൽ ഇത് ഓർമയിൽ വെച്ചിട്ട് നമ്മൾക്ക് മുന്നോട്ടു പോകാം സിസ്റ്റം സ്റ്റേറ്റ് 1ഇൽ ആണോ എന്നത് തീരുമാനിക്കുന്നത് സ്റ്റേറ്റ് ലോജിക് ആണ് ഓരോ ട്രാൻസിഷൻ അനുസരിച്ച് ഔട്ട്പുട്ട് കോയിൽ ഉണ്ടാകും ഇത് സ്റ്റേറ്റ് 1 ഔട്ട്പുട്ട് കോയിൽ വേണ്ടിയുള്ള ഓക്സിലറി കോൺടാക്ട് ആണ് അപ്പോൾ സിസ്റ്റം സ്റ്റേറ്റ് 1ഇൽ ആണെങ്കിൽ ഈ കോൺടാക്ട് സ്ഥാപിക്കും തൽ സമയത്ത് ഓട്ടോ പുഷ് ബട്ടൺ തരംഗം വന്നാൽ ട്രാൻസിഷൻ A സജ്ജമാകും ഇത് ഓൺ ആകും നമ്മൾ മാതൃക ഉണ്ടാക്കിയത് നല്ലതുപോലെ ആണെങ്കിൽ ഒരു സമയം ഒരു ട്രാൻസിഷൻ മാത്രമേ സജ്ജമാകു അടുത്തഘട്ടത്തിൽ ട്രാൻസിഷൻ A ഓൺ ആകും മുമ്പേ തന്നെ സ്റ്റേറ്റ് 1 ഓൺ ആയിരുന്നു അപ്പോൾ നമ്മൾക്ക് സ്റ്റേറ്റ് ലോജിക് നോക്കാം ഇപ്പോൾ സ്റ്റേറ്റ് 1 ഓൺ ആണ് ഒപ്പം ഓട്ടോ പുഷ് ബട്ടൺ അമർത്തിയത് കാരണം ട്രാൻസിഷൻ A ഓൺ ആയി ഇപ്പോൾ നമ്മളുടെ കണക്കുകൂട്ടൽ ട്രാൻസിഷൻ ലോജിക്കിൽ നിന്നും സ്റ്റേറ്റ് ലോജിക്കിൽ എത്തി സ്റ്റേറ്റ് 1 ഓൺ ആയതു കണ്ടു അതിനാൽ ഇനി എന്ത് സംഭവിക്കും എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ ട്രാൻസിഷൻ A ഓൺ ആണ് ഈ സമയത്ത് ട്രാൻസിഷൻ ലോജിക് വിലയിരുത്തി അത് ശരിയാണെന്ന് കണ്ടെത്തി അതിനാൽ ഓക്സിലറി കോൺടാക്ട് അടയും അതുകൊണ്ട് സ്റ്റേറ്റ് 2 ഓൺ ആകും ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും ആദ്യത്തേത് ഈ കോൺടാക്ട് ഓൺ ആകും ഒപ്പം ഈ കോൺടാക്ട് ഓഫ് ആകും അടുത്ത ആവൃത്തിയിൽ ഇത് ഓഫ് ആകും ട്രാൻസിഷൻ A ഓൺ അതുകൊണ്ട് ഇത് ഓഫ് ആകും ഒപ്പം ഇതും ഓഫ് ആകും അതുകൊണ്ട് സ്റ്റേറ്റ് 2 ഓൺ ആകും ഇത് ഓഫ് ആകും ഇത് ഓൺ ആണോ എന്നത് കാര്യമില്ല അതുകൊണ്ട് ഇത് ഓൺ ആയി തന്നെ ഇരിക്കും അതിനാൽ ഇപ്പോൾ സിസ്റ്റം സ്റ്റേറ്റ് 2 എത്തും സ്റ്റേറ്റ് 2 ഓൺ ആകുമ്പോൾ അടുത്ത ആവൃത്തിയിൽ സെൻസർ തരംഗം അനുസരിച്ച് വേറെ ഏതെങ്കിലും ട്രാൻസിഷൻ ഉണ്ടാകും സമാനമായി സ്റ്റേറ്റ് 3ഇൽ ട്രാൻസിഷൻ B സംഭവിക്കും അവിടെ പാർട്ട് പ്ലേസ് ശരിയായിരിക്കും പാർട്ട് പ്ലേസ് തരംഗം വരുമ്പോൾ ട്രാൻസിഷൻ B ഓൺ ആകും ഇവയൊന്നും ഓൺ ആകില്ല അപ്പോൾ സ്റ്റേറ്റ് 3 ഓൺ ആകും അപ്പോൾ ട്രാൻസിഷൻ C അല്ലെങ്കിൽ ട്രാൻസിഷൻ D നടക്കും ട്രാൻസിഷൻ D നടക്കാൻ കാരണം സ്റ്റോപ്പ് പുഷ് ബട്ടൺ അമർത്തിയത് കൊണ്ടാണ് ഒപ്പം ട്രാൻസിഷൻ C ബോട്ടം ലിമിറ്റ് സ്വിച്ച് കാരണമാണ് ഇവയിൽ ഏതെങ്കിലുമൊന്ന് സംഭവിച്ചാൽ സ്റ്റേറ്റ് 3ഇൽ നിൽക്കാതെ സ്റ്റേറ്റ് 4 ഇൽ എത്തും ട്രാൻസിഷൻ C ഉണ്ടായാൽ സ്റ്റേറ്റ് 3 ലോജിക് തെറ്റ് ആകും എന്നിട്ട് സ്റ്റേറ്റ് 4 ഓൺ ആകും നേരെമറിച്ച് ട്രാൻസിഷൻ D നടന്നാൽ പിന്നെ ഈ സ്റ്റേറ്റ് ഇൽ നിൽക്കാൻ സാധിക്കില്ല അപ്പോൾ അത് ഇവിടെ കാണിക്കാത്ത സ്റ്റേറ്റ് 5ഇൽ പോകും അതിനാൽ യാന്ത്രികമായി സ്റ്റേറ്റ് ഗ്രാഫ് വികസിപ്പിച്ചാൽ യാന്ത്രികമായി തന്നെ അതിൻറെ പെരുമാറ്റം വിവരിക്കാൻ സാധിക്കും അതിനാൽ ഒരു ട്രാൻസിഷൻ അനുസരിച്ച് ഒരു ലോജിക് ഉണ്ടാവും അതുപോലെതന്നെ ഒരു സ്റ്റേറ്റ് ഒരു ലോജിക് ഉണ്ടാവും ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഇനേബിൾ ലോജിക് ഉണ്ടാവും അതിനാൽ രേഖാ രൂപത്തിൽ നിന്ന് പറയാൻ സാധിക്കും ഓട്ടോ പുഷ് ബട്ടൺ അമർത്തിയാൽ സിസ്റ്റം സ്റ്റേറ്റ് 1ഇൽ നിന്ന് സ്റ്റേറ്റ് 2ഇൽ പോകും ഇതുപോലെ ഓരോ ട്രാൻസിഷൻ നോക്കി അതിന് യോജിച്ച ട്രാൻസിഷൻ ലോജിക് എഴുതും സമാനമായ രീതിയിൽ ട്രാൻസിഷൻ X സംഭവിച്ചാൽ ഒരു പ്രത്യേക സ്റ്റേറ്റ് ഇൽ പോകും എല്ലാത്തിനും കൂടി നമ്മൾക്ക് ഒരു പ്രോഗ്രാം എഴുതാൻ സാധിക്കും അതിനാൽ ലോജിക് കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല രേഖാ രൂപം വരയ്ക്കുമ്പോൾ ലോജിക് കുറിച്ച് ചിന്തിച്ചാൽ മതി ശേഷം പ്രോഗ്രാം ആയതിനാൽ എല്ലാം യാന്ത്രികമായിരിക്കും ഇത് വളരെ സഹായകരം ആയിരിക്കും അടുത്തത് ഔട്ട്പുട്ട് കോയിൽ ആണ് ഔട്ട്പുട്ട് ലോജിക് വളരെ ലളിതമാണ് പ്രത്യേകിച്ച് ഈ ഉദാഹരണത്തിന് ഔട്ട്പുട്ട് ലോജിക് പറയുന്നത് സ്റ്റേറ്റ് 2ഇൽ ആണെങ്കിൽ പവർ ലൈറ്റ് ഓൺ ആകണം ഇതുതന്നെയാണു ഔട്ട്പുട്ട് ടേബിൾ പറയുന്നത് ഒരു കൂട്ടിച്ചേർക്കൽ ഇവിടെയുള്ളത് മാനുവൽ സ്വിച്ച് ആണ് ചില സമയങ്ങളിൽ നമ്മൾക്ക് യന്ത്രങ്ങൾകൊണ്ടല്ലാതെയും പ്രവർത്തിക്കണം അതിനാൽ PLC പ്രവർത്തിക്കുമ്പോൾ മാനുവൽ സ്വിച്ച് ഇട്ടാൽ പവർ ലൈറ്റ് ഓൺ ആകും സമാനമായി മാനുവൽ ഡൌൺ പുഷ് ബട്ടൺ ഉണ്ട് ഇത് സിസ്റ്റം യന്ത്രികം അല്ലാത്ത പ്രവർത്തനത്തിന് ലോജിക് കൂട്ടിച്ചേർക്കാൻ സാധിക്കും എന്ന് വിശദീകരിക്കാൻ വേണ്ടിയാണ് കാണിക്കുന്നത് സ്റ്റേറ്റ് 3ഇൽ നിൽക്കുമ്പോൾ ഡൌൺ സോളിനോയ്ഡ് പ്രവർത്തിപ്പിക്കണം എന്നാണ് നേരത്തെ എഴുതിയ പ്രോഗ്രാം ആയിട്ട് ഇതിനെ താരതമ്യം ചെയ്യുകയാണെങ്കിൽ അവിടെ ഒന്നും സ്റ്റേറ്റ് അല്ലെങ്കിൽ ട്രാൻസിഷൻ ആശയം വരുന്നില്ല നമ്മൾ നേരിട്ട് ഔട്ട്പുട്ട് ഇൻപുട്ട് അനുസരിച്ച് എഴുതി ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന സിസ്റ്റത്തിൽ മെമ്മറി ഉണ്ട് അതുകൊണ്ടാണ് സ്റ്റേറ്റ് എന്ന ആശയം വരുന്നത് ഇവിടെ കുറച്ച് ഇൻപുട്ട് വന്നാൽ അതിനനുസരിച്ച് ഔട്ട്പുട്ട് വരും എന്ന് പറയാൻ സാധിക്കില്ല ഔട്ട്പുട്ട് ഇവിടെ സ്റ്റേറ്റ് ആശ്രയിച്ച് ഇരിക്കും അതിനാൽ സ്റ്റേറ്റ് എന്ന ആശയം വളരെ പ്രധാനമാണ് ഈ ആശയം നടപ്പിലാക്കാൻ ടെമ്പററി വേരിയബൽ ആവശ്യം വരും ഇവിടെ കാണുമ്പോൾ പ്രോഗ്രാം വളരെ സങ്കീർണമാണ് ഇത് 100 ശരിയാണോ എന്ന് പറയാൻ സാധിക്കില്ല ഇവിടെ പറയുന്നുണ്ട് ഓട്ടോ മോഡ് ആണെങ്കിൽ ഇത് ഒരു ലോജിക് വേരിയബൽ അനുസരിച്ചുള്ള ഓക്സിലറി കോൺടാക്ട് ആണ് ഓട്ടോ PB ആണെങ്കിൽ ഇത് ഓട്ടോ മോഡ് കോയിൽ ആണ് ഇത് ഓട്ടോ മോഡ് കോയിൽ ആണ് ഒപ്പം ഇത് ഓട്ടോ മോഡ് ഓക്സിലറി സ്വിച്ച് ആണ് അതിനാൽ PB മുക്തമാക്കാൻ സാധിക്കും ഓട്ടോ മോഡ് ഓൺ ആണെങ്കിൽ എല്ലാം പ്രവർത്തിക്കും ബോട്ടം ലിമിറ്റ് സ്വിച്ച് ഓൺ ആയി ഡൌൺ സോളിനോയ്ഡ് ഓൺ അല്ലെങ്കിൽ അപ്പ് സോളിനോയ്ഡ് ഊർജ്ജം ലഭിക്കും സമാനമായി അപ്പ് സോളിനോയ്ഡ് ഊർജ്ജം ലഭിച്ചാൽ ടോപ് ലിമിറ്റ് സ്വിച്ച് കിട്ടുന്നതുവരെ പ്രവർത്തിക്കും ഇപ്പോൾ 200 സ്റ്റേറ്റ് ഒക്കെ വന്നാൽ ഇതുപോലെ ലളിതമായ പ്രോഗ്രാം എഴുതാൻ സാധിച്ചെന്നു വരില്ല അഥവാ എഴുതിയാൽ തെറ്റുകൾ സംഭവിക്കാം